ആശംസകൾ മൊഡ്യൂളിന്റെ യൂണിറ്റ് 7 ലേക്ക് സ്വാഗതം ഈ യൂണിറ്റ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ തിരിച്ചറിഞ്ഞ പ്രോഗ്രാം ഫലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ പ്രോഗ്രാം എജ്യുക്കേഷണൽ ലക്ഷ്യങ്ങൾ പരിശോധിച്ചു അതിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ ബിരുദധാരികൾ ബിരുദം നേടി 4 5 വർഷത്തിന് ശേഷം എന്ത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രസ്താവിക്കുന്നു അതിനാൽ ഈ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ശരിക്കും ബിരുദധാരികളുടെ പ്രവർത്തനങ്ങളുമായി കൈവരിക്കേണ്ട ഒരുതരം ലക്ഷ്യം നൽകുന്നു തുടർന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ ഉണ്ട് ഒരു നിർദ്ദിഷ്ട എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ നിന്ന് ബിരുദ സമയത്ത് ബിരുദധാരിയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് അവയാണ് അതായത് പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങൾ പ്രത്യേക ബ്രാഞ്ചിന് വളരെ നിർദ്ദിഷ്ടമാണ് അത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എല്ലാ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളും സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടതായിരിക്കണം മുമ്പത്തെ യൂണിറ്റിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് അതാണ് നിലവിലെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഈ യൂണിറ്റിന്റെ ഫലങ്ങൾ സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ സ്വഭാവം മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും തുടർന്ന് 12 ൽ 5 ഫലങ്ങൾ പ്രോഗ്രാം ഫലങ്ങൾ പിഒ1 പിഒ2 പിഒ3 പിഒ4 പിഒ5 ഇവ കൈവരിക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ തിരിച്ചറിയാനോ ദൃഷ്ടാന്തീകരിക്കാനോ ഞങ്ങൾ ശ്രമിക്കുന്നു സംഗ്രഹിക്കുമ്പോൾ പ്രോഗ്രാം ഫലങ്ങൾ എന്തൊക്കെയാണ് ഏതൊരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലെയും ബിരുദധാരികൾ ബിരുദം നേടുന്ന സമയത്ത് നേടേണ്ടതാണ് പ്രോഗ്രാം ഫലങ്ങൾ ഈ പ്രോഗ്രാം ഫലങ്ങൾ വിജ്ഞാനശാഖ നിർദ്ദിഷ്ടമല്ല അതായത് എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെയും ബിരുദധാരികൾക്ക് ഈ പ്രോഗ്രാം ഫലങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ അവയെ തിരിച്ചറിയുന്നു അതിനാൽ അക്രഡിറ്റേഷന്റെ നിലവിലെ പശ്ചാത്തലത്തിലുള്ള ഒരു സ്ഥാപനത്തിനും പ്രോഗ്രാം ഫലങ്ങൾ എഴുതുന്നതിനോ മാറ്റുന്നതിനോ തിരഞ്ഞെടുക്കാനാവില്ല വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നൽകുന്ന ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കി അവ കാലത്തിനനുസരിച്ച് മാറാം പക്ഷേ അത്തരം മാറ്റങ്ങൾ കുറച്ച് വർഷത്തിലൊരിക്കൽ നടക്കും ഇപ്പോഴുള്ളതുപോലെ എൻബിഎ പ്രസ്താവിച്ച പ്രോഗ്രാം ഫലങ്ങൾ വളരെ സമാനവും വാഷിംഗ്ടൺ അക്കോഡിന്റെ ഗ്രാജ്വേറ്റ് ആട്രിബ്യൂട്ടുകളുമായി യോജിക്കുന്നതുമാണ് വാഷിംഗ്ടൺ ഉടമ്പടിയിൽ ഒപ്പുവെച്ച എല്ലാ രാജ്യങ്ങളും യഥാർത്ഥത്തിൽ തങ്ങളുടെ പരിപാടികൾ നടത്തുമെന്ന് പ്രതിജ്ഞാബദ്ധരായ സംരക്ഷണ ഉടമ്പടിയാണ് വാഷിംഗ്ടൺ കരാർ സാമാന്യമായി വാഷിംഗ്ടൺ കരാർ തിരിച്ചറിഞ്ഞ തരത്തിലുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ ഒരു ബിരുദ ആട്രിബ്യൂട്ടുകൾ അനുസരിച്ചാണ് ഇത് ഞങ്ങൾക്ക് ഗ്രാജ്വേറ്റ് ആട്രിബ്യൂട്ടുകൾ കൃത്യമായി പകർത്തേണ്ടതില്ല പക്ഷേ ഓരോ രാജ്യവും അവരുടെ ഗ്രാജ്വേറ്റ് ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ പ്രോഗ്രാം ഫലങ്ങൾ വാഷിംഗ്ടൺ അക്കോർഡിന്റെ ഗ്രാജ്വേറ്റ് ആട്രിബ്യൂട്ടുകളുടെ ആദർശത്തിൽ മാറ്റിയെഴുതുന്നു ഇന്ത്യയും ചെയ്തത് അതാണ് പ്രോഗ്രാം ഫലങ്ങളുടെ എണ്ണം 12 ആണ് എബിഇടി പോലുള്ള ചില സന്ദർഭങ്ങളിൽ അവ 11 ആണ് എന്നാൽ നിങ്ങൾ അവയെ ഒരുമിച്ച് കാണുമ്പോൾ അവ വാഷിംഗ്ടൺ കരാറിന്റെ ആദർശമനുസരിച്ച് അവ ഒരേ തരത്തിലുള്ളവയാണ് കൂടാതെ 12 പ്രോഗ്രാം ഫലങ്ങളും കൈവരിക്കേണ്ടതുണ്ട് ഞങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന അതേ അളവിലേക്ക് അവയെല്ലാം നേടുന്നത് വളരെ എളുപ്പമായിരിക്കില്ല അതിനാൽ തുടക്കത്തിൽ എല്ലാ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും അല്ലെങ്കിൽ അതിൽ നിന്ന് ബിരുദം നേടുന്ന വിദ്യാർത്ഥികളും എല്ലാ ഫലങ്ങളും ഒരേ നിലയിലേക്ക് എത്തുകയില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കും അവ ഒരേ നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് ഓരോ പ്രോഗ്രാമും ഓരോ പിഒയുമായി ബന്ധപ്പെട്ട് ഒരു ടാർഗെറ്റ് ഇടും വിഭവങ്ങൾക്കൊപ്പം നിങ്ങൾക്കുള്ള വിദ്യാർത്ഥികളുമൊത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേക പിഒ ഉള്ള പ്രോഗ്രാം ഉപയോഗിച്ച് നിങ്ങൾക്കൊപ്പം നിർവചിക്കാൻ കഴിയുന്ന നിങ്ങൾ ബന്ധപ്പെടുത്തുന്ന ഏത് നമ്പറും 50 ലെവലിൽ 30 ലെവലിൽ നേടാം അതിനാൽ എല്ലാ പ്രോഗ്രാം ഫലങ്ങളും ഒരേ നിലയിലെത്തേണ്ടത് നിർബന്ധമല്ല പിഒകളുടെ ഒരു ദ്രുത അവലോകനം സൂചിപ്പിക്കുന്നത് 12 പിഒകളിൽ 5 എണ്ണം മാത്രമാണ് പ്രധാനമായും സാങ്കേതികവും വിജ്ഞാനശാഖപരവുമായ ഫലങ്ങൾ അതിനർത്ഥം അവയെ എഞ്ചിനീയറിംഗുമായി നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും അവ 12 ൽ 5 എണ്ണം മാത്രമാണ് സാങ്കേതിക സ്വഭാവമുള്ളവ ബാക്കിയുള്ളവയെ ഞങ്ങൾ പ്രൊഫഷണൽ ഫലങ്ങൾ എന്ന് വിളിക്കുന്നു മാത്രമല്ല അവയെ മറ്റ് ആളുകൾ ജനറിക് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്ന കഴിവുകൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്നും വിളിക്കുന്നു അതിനാൽ പ്രൊഫഷണൽ ഫലങ്ങളോടൊപ്പം വിജ്ഞാനശാഖാ ഫലങ്ങളുടെയും സാങ്കേതിക ഫലങ്ങളുടെയും സംയോജനമായി പിഒകളെ കാണാൻ കഴിയും മൂന്ന് പിഒകൾ സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരാമർശിക്കുന്നു സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നം എന്ന പദം പിഒകൾ വളരെ ശക്തമായി ഉപയോഗിച്ചു അവ എന്താണെന്ന് മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും രണ്ട് പിഒകൾ സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളെയും രണ്ട് പിഒകൾ സന്ദർഭോചിതമായ അറിവിനെയും പരാമർശിക്കുന്നു നിങ്ങൾ സംസാരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് പ്രശ്നത്തിന്റെ പ്രശ്നങ്ങളിലൊന്ന് ഒരു യഥാർത്ഥ ലോക എഞ്ചിനീയറിംഗ് പ്രശ്നം എല്ലായ്പ്പോഴും ഒരു നിർദ്ദിഷ്ട സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കുമ്പോൾ പരിഹാരം സാർവത്രികമായി ബാധകമാണ് അതിനാൽ യഥാർത്ഥ ലോക എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമ്പോഴോ രൂപപ്പെടുത്തുമ്പോഴോ ധാരാളം സന്ദർഭോചിതമായ അറിവുകൾ ഉൾക്കൊള്ളുന്നു അത് ഏതെങ്കിലും എഞ്ചിനീയർ വിലമതിക്കേണ്ടതുണ്ട് വാഷിംഗ്ടൺ അക്കോഡിന്റെ തന്നെ സവിശേഷതകളുള്ള സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവ വിശാലമായ അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ള സാങ്കേതിക എഞ്ചിനീയറിംഗും മറ്റ് പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്നു മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു യഥാർത്ഥ ലോക പ്രശ്നം എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പരിഹാരം ഉണ്ടായാലും അത് അനുസരിച്ച് ആകാം അത് മതിയായതായിരിക്കാം അല്ലെങ്കിൽ അത് സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നു എന്നാൽ സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളെ അത് നെഗറ്റീവ് രീതിയിൽ ബാധിച്ചേക്കാം ആരുടെ ആവശ്യകതകളാണ് നാം നിറവേറ്റാൻ ശ്രമിക്കുന്നത് വിശാലമായതും വൈരുദ്ധ്യമുള്ളതുമായ പ്രശ്നങ്ങൾ എന്ന അർത്ഥത്തിൽ വളരെയധികം എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സങ്കീർണ്ണമാണ് നിങ്ങൾ ഒരു സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വ്യക്തമായ പരിഹാരമില്ല ഇത് ചാപ്റ്ററിന്റെ അവസാനം കാണുന്ന പ്രശ്നം പോലെയല്ല അതിന് നിങ്ങൾക്ക് ഒരു പ്രത്യേക പരിഹാരം മാത്രമേയുള്ളൂ ഒരു പാഠപുസ്തകത്തിലെ അധ്യായത്തിന്റെ അവസാനത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം മാത്രമേ ലഭ്യമാകൂ ഇവിടെ ഒരു യഥാർത്ഥ ലോക എഞ്ചിനീയറിംഗ് പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമില്ല വ്യക്തമായ പരിഹാരവുമില്ല അതിന്റെ മറ്റൊരു സവിശേഷത അവയിൽ വ്യത്യസ്ത ആവശ്യങ്ങളുള്ള വിവിധതരം തല്പരകക്ഷികൾ ഉൾപ്പെടുത്തുന്നു വ്യാപകമായി വ്യത്യസ്തമായ ഈ ആവശ്യങ്ങൾ പരിഹരിക്കാവുന്ന പ്രശ്നമായി പറഞ്ഞൊതുക്കാൻ കഴിയില്ല ഏത് പ്രശ്നമാണ് നിങ്ങൾ കണ്ടുമുട്ടാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത് സമൂഹത്തിലെ ഏത് വിഭാഗത്തെ പ്രതികൂലമായി ബാധിക്കും വീണ്ടും അവ ഒരു പരിധിവരെ കാര്യമായ പ്രത്യാഘാതങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് ഉണ്ടാക്കുന്നു എന്നീ അർത്ഥത്തിൽ പ്രശ്നങ്ങൾ നയതന്ത്രപരമായി തുടങ്ങുന്നു ഒരേ സന്ദർഭത്തിൽ അതേ പരിഹാരം അഭികാമ്യമാണ് മറ്റേതെങ്കിലും സന്ദർഭത്തിലെ പരിണതഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും പരിണതഫലങ്ങൾ വ്യത്യസ്തമാണ് ഉദാഹരണത്തിന് ഒരു നഗര പശ്ചാത്തലത്തിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു പരിഹാരം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു വിപരീത ഫലങ്ങൾ സൃഷ്ടിച്ചേക്കാം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ മറ്റൊരു സവിശേഷതയാണിത് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നത്തിന് നിരവധി ഘടകഭാഗങ്ങളും നിരവധി ഉപപ്രശ്നങ്ങളുമുണ്ട് അവയെല്ലാം ഒരുമിച്ച് സംയോജിപ്പിക്കേണ്ടതുണ്ട് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ ചില ഉദാഹരണങ്ങൾ വരണ്ട മേഖലയിലെ ഒരു കൂട്ടം ഗ്രാമങ്ങൾക്ക് ജലസേചനത്തിനും കുടിവെള്ളത്തിനുമായി വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള ആസൂത്രണം എന്ന് നമുക്ക് പറയാം അത് ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച സവിശേഷതകളിലേക്ക് നയിക്കും ഈ സവിശേഷതകളെല്ലാം ബാധകമാകും ഇത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് അവ കണക്കിലെടുക്കേണ്ടതുണ്ട് ഒരു നദീതടത്തിൽ ലഭ്യമായ വെള്ളവും അതിന്റെ ഉപയോഗവും കൈകാര്യവും ചെയ്യുന്നതിന് ഒരു ഇൻസ്ട്രുമെന്റേഷൻ സംവിധാനം രൂപകൽപ്പന ചെയ്യുക നിലവിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ നദീതടവും നദി ജലം ഒരു സമകാലവർത്തിയായ വിഷയമായതിനാൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾക്കിടയിൽ എല്ലായ്പ്പോഴും വളരെ വലിയ തർക്കങ്ങൾ ഉണ്ട് അതിനാൽ ലഭ്യമായ ജലസ്രോതസ്സുകൾ നദീതടം ഇവ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിഹരിക്കാൻ ശ്രമിക്കുകയോ തർക്കംതീർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് വളരെ സങ്കീർണ്ണമായ പ്രശ്നമാണ് 2 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള പട്ടണത്തിൽ ദരിദ്രർക്കും ഇടത്തരക്കാർക്കും വേണ്ടി വലിയ തോതിലുള്ള ഭവന നിർമ്മാണത്തിനായി ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്യുക ചെറിയ പട്ടണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു നഗരത്തിൽ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ഒരു നഗരത്തിലേക്കോ ജില്ലയിലേക്കോ വൈദ്യുതി വിതരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക നമ്മളെല്ലാവരും ഇത് അനുഭവിച്ചതായി ഞാൻ കരുതുന്നു ഊർജ്ജ വിതരണത്തിന്റെ ഗുണനിലവാരം ഒരിക്കലും തൃപ്തികരമല്ല ഇത് പരിഹരിക്കുന്നത് വളരെ എളുപ്പമല്ല മാത്രമല്ല ആളുകൾ ഒരു പൊതു പരിഹാരവുമായി ഏതെങ്കിലും നിർദ്ദിഷ്ട പരിഹാരവുമായി യോജിക്കുന്നില്ല മനുഷ്യരും ആനകളും തമ്മിൽ സംഘർഷമില്ലാതെ ആനകളുടെ നടവഴി കൈകാര്യം ചെയ്യുന്നതിനുള്ള സംവിധാനം രൂപകൽപ്പന ചെയ്യുക രാജ്യത്തിന്റെ തെക്കൻ സംസ്ഥാനങ്ങളിലും ഇത് അടുത്തിടെ അനുഭവപ്പെട്ട പ്രശ്നമാണ് മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആനകളുടെ നടവഴിളിലേക്ക് ഒരാൾ അതിക്രമിച്ച് കടക്കുന്നുണ്ടാകാം അതിലൂടെ ആനകൾ നീങ്ങുന്നു നിങ്ങൾ അതു തടഞ്ഞാൽ മനുഷ്യരും ആനകളും തമ്മിൽ എല്ലായ്പ്പോഴും ഒരു സംഘട്ടനമുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ഇടനാഴി എങ്ങനെ നിയന്ത്രിക്കും എന്നത് സാങ്കേതികവും സങ്കീർണ്ണവുമായ ഒരു സാമൂഹിക പ്രശ്നമാണ് ഇപ്പോൾ എന്താണ് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ ഒന്നാമതായി സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനത്തിൽ വൈവിധ്യമാർന്ന വിഭവങ്ങൾ ആളുകളുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങൾ പണം ഉപകരണങ്ങൾ മെറ്റീരിയലുകൾ വിവരങ്ങൾ സാങ്കേതികവിദ്യകൾ എന്നിവ ഉൾപ്പെടുന്നു കൂടാതെ വിശാലമായ അല്ലെങ്കിൽ പരസ്പരവിരുദ്ധമായ സാങ്കേതികത തമ്മിലുള്ള ഇടപെടലുകളിൽ നിന്ന് ഉണ്ടാകുന്ന സുപ്രധാന പ്രശ്നങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അതിനർത്ഥം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും അവ ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതിനോ ആവശ്യപ്പെടുന്നു പകരം ഒരൊറ്റ ഒന്ന് എടുത്ത് അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എഞ്ചിനീയറിംഗ് തത്ത്വങ്ങളെക്കുറിച്ചുള്ള അറിവിന്റെ ക്രിയേറ്റീവ് ഉപയോഗം ഉൾപ്പെടുത്തുക മുൻ അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും നിലവിൽ ഒരു സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് മുൻകാല അനുഭവം ആശ്രയിച്ചല്ല ഇപ്പോൾ നമുക്ക് PO1 ലേക്ക് വരാം അതാണ് പ്രശ്ന ഫലം 1 ഇതിനെ എഞ്ചിനീയറിംഗ് പരിജ്ഞാനം എന്ന് ലേബൽ ചെയ്തിരിക്കുന്നു സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗണിതശാസ്ത്രം ശാസ്ത്രം എഞ്ചിനീയറിംഗ് അടിസ്ഥാനകാര്യങ്ങൾ എഞ്ചിനീയറിംഗ് വൈദഗ്ദ്ധ്യം എന്നിവയുടെ അറിവ് പ്രയോഗിക്കുക നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലെ എല്ലാ കീവേഡുകളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം പ്രധാന ലക്ഷ്യം വാസ്തവത്തിൽ വാചകം നേർവിപരീതമായിരുന്നു സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗണിതം ശാസ്ത്രം എഞ്ചിനീയറിംഗ് അടിസ്ഥാനകാര്യങ്ങൾ എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷൻ എന്നിവയുടെ പരിജ്ഞാനം പ്രയോഗിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയും അതിനാൽ സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നം പരിഹരിക്കുന്നതാണ് ഇതിന്റെ കാതൽ എന്നാൽ ഈ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവബോധജന്യമായ രീതിയിലോ അനൌപചാരികമായ രീതിയിലോ ട്രയൽ ആൻഡ് എറർ വഴിയോ അല്ല മറിച്ച് ഗണിതശാസ്ത്രം ശാസ്ത്രം എഞ്ചിനീയറിംഗ് അടിസ്ഥാനകാര്യങ്ങൾ എന്നിവയുടെ അറിവ് ചിട്ടയായ രീതിയിൽ പ്രയോഗിക്കുക എന്നതാണ് അതാണ് പ്രോഗ്രാം ഫലങ്ങളിൽ ഒന്ന് ചില അർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ഭൂരിഭാഗവും പ്രധാനമായും ഈ ഫലത്തെ അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് സയൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തമ്മിൽ വിവേചിക്കണം ഉദാഹരണത്തിന് തെർമോഡൈനാമിക്സിനെക്കുറിച്ചുള്ള ഒരു കോഴ്സ് ഒരു എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സാണെന്ന് ഞാൻ കരുതുന്നു ഏതൊരു ഹീറ്റ് ട്രൻസ്ഫർ തെർമൽ എഞ്ചിനീയറിംഗിന് കീഴിലുള്ള ഏതെങ്കിലും ഹീറ്റ് ട്രൻസ്ഫർ ഉപകരണങ്ങളുടെ രൂപകൽപ്പന ഒരു എഞ്ചിനീയറിംഗ് കോഴ്സായി മാറും എന്നാൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ ഭൂരിഭാഗവും ഈ ഫലത്തെ അഭിസംബോധന ചെയ്തേക്കാം പക്ഷേ നിർഭാഗ്യവശാൽ പല സ്ഥാപനങ്ങളിലെയും വിലയിരുത്തൽ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ കുറവാണ് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു ചില സ്ഥാപനങ്ങളും ചില വിഷയങ്ങളിൽ ചില കോളേജുകളും നിങ്ങൾ പരീക്ഷ പേപ്പറുകളിൽ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു അവർ അങ്ങനെ ചെയ്യുന്നു പക്ഷേ ഇത് പര്യാപ്തമല്ല ശരി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ശതമാനം വളരെ ചെറുതായിരിക്കും ചാപ്റ്ററിന്റെ അവസാനമുള്ള പ്രശ്നങ്ങൾ ഈ പിഒയെ മിതമായി പരിഗണിക്കും ചാപ്റ്ററിന്റെ അവസാനമുള്ള പ്രശ്നങ്ങൾ പ്രധാനമായും നിർവചിക്കപ്പെട്ട പ്രശ്നങ്ങളാണ് അവ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടും സങ്കീർണ്ണതയും പരസ്പരം മാറ്റി ഉപയോഗിക്കരുത് എല്ലാ പ്രശ്നങ്ങളും എളുപ്പമല്ലായിരിക്കാം പക്ഷേ ഇത് യാന്ത്രികമായി ഒരു സങ്കീർണ്ണ പ്രശ്നമായി മാറുന്നില്ല അതിനാൽ പല കോഴ്സുകളിലും സംഭവിക്കുന്നത് ടെസ്റ്റുകളിലും പരീക്ഷകളിലും പ്രശ്നങ്ങൾ നൽകും അത് ചാപ്റ്റർ പ്രശ്നങ്ങളുടെ അവസാനത്തിന് സമാനമാണ് അതിനാൽ ഈ കോഴ്സുകളിൽ ഭൂരിഭാഗവും ഈ പിഒയെ ഒരു പരിധി വരെ അഭിസംബോധന ചെയ്യുന്നു എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാത്ത ബേസിക് സയൻസസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സയൻസസ് എന്നിവയാണ് ഭൂരിഭാഗം കോഴ്സുകളും അവ മുൻവ്യവസ്ഥകൾ മാത്രമേയുള്ളൂ പക്ഷേ നേരിട്ട് എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളല്ല കൂടാതെ പ്രവർത്തനങ്ങളുടെ ചില ഉദാഹരണങ്ങളും ഇപ്പോൾ ഞങ്ങൾ ചില ഉദാഹരണങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു ഈ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഇത് നിങ്ങളുടെ കോഴ്സിലേക്ക് നിർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രത്യേക പിഒയെ അഭിസംബോധന ചെയ്യും ഏതെല്ലാം പ്രവർത്തനങ്ങൾ പോലെ അധ്യായത്തിന്റെ അവസാനം ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക ഏറ്റവും കുറഞ്ഞത് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് പ്രശ്നം രൂപപ്പെടുത്തിയ സന്ദർഭം മനസ്സിലാക്കുക നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ കഴിയും ഒരു കേസ് പഠനം നൽകുന്നതിലൂടെ ഒരു കേസ് പഠനത്തിന്റെ വിവരണവും അതിലൂടെ പ്രവർത്തിക്കുന്നതും അതിലൂടെ നിങ്ങൾ സന്ദർഭം മനസ്സിലാക്കേണ്ടതുണ്ട് സന്ദർഭം മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം സങ്കീർണ്ണ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുക കേസ് പഠനങ്ങളിലൂടെയും ഇത് നൽകാം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ ഉദാഹരണങ്ങൾ നൽകാൻ നിങ്ങൾക്ക് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടാം സാമാന്യമായി അടുത്തുള്ള പ്രദേശത്തെ ഒരു പ്രശ്നം തിരിച്ചറിയാൻ നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാനും അത് രൂപീകരിക്കാൻ ആവശ്യപ്പെടാനും കഴിയും ഫോർമുലേഷൻ ഇല്ലെങ്കിൽ ആ പ്രത്യേക എഞ്ചിനീയറിംഗ് പ്രശ്നത്തിന്റെ വിവിധ സവിശേഷതകളെങ്കിലും വിവരിക്കുക തന്നിരിക്കുന്ന സങ്കീർണ്ണമായ പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരങ്ങൾ നൽകുക കേസ് പഠനങ്ങളിലൂടെ മാത്രമേ അതും ചെയ്യാൻ കഴിയൂ ഇപ്പോൾ പിഒ2 ലേക്ക് വരുന്നത് പിഒ1 നെ അപേക്ഷിച്ച് വളരെ സങ്കീർണ്ണവും ബുദ്ധിമുട്ടുള്ളതുമാണ് ഗണിതശാസ്ത്രം പ്രകൃതിശാസ്ത്രം എഞ്ചിനീയറിംഗ് ശാസ്ത്രം എന്നിവയുടെ ആദ്യ തത്ത്വങ്ങൾ ഉപയോഗിച്ച് വ്യക്തമായ നിഗമനങ്ങളിൽ എത്തുന്ന സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ തിരിച്ചറിയുക രൂപീകരിക്കുക ഗവേഷണം നടത്തുക വിശകലനം ചെയ്യുക എന്നിവ ഇവിടെ പ്രസ്താവനയിൽ പറയുന്നു ഒരു ഊന്നൽ നിങ്ങൾ അവബോധജന്യമായും വ്യക്തമായും അല്ലെങ്കിൽ താൽക്കാലികമായും പരിഹാരങ്ങൾ നിർമ്മിക്കരുത് എന്നതിന് നൽകണം ആദ്യ തത്ത്വങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കണം അതാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കീവേഡുകൾ എടുക്കുകയാണെങ്കിൽ ഈ പിഒയെ അഭിസംബോധന ചെയ്യുന്നതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെത് തിരിച്ചറിയൽ പ്രശ്നം തിരിച്ചറിയൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഒരു അനുഭവം നൽകുകയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പിഒ സന്ദർശിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും പ്രശ്നം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സാങ്കേതിക അർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രശ്നം രൂപപ്പെടുത്താൻ കഴിയുമോ അതിനാൽ തിരിച്ചറിഞ്ഞ ഒരു പ്രശ്നത്തിന്റെ വാക്കാലുള്ള വിവരണം എഞ്ചിനീയറിംഗ് രീതിയിൽ രൂപപ്പെടുത്തുന്നതിന് വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട് അതിൽ നിരവധി അനുമാനങ്ങൾ ഉൾപ്പെടും ആ അനുമാനങ്ങൾ ചില സന്ദർഭങ്ങളിൽ മാത്രം ന്യായീകരിക്കാമെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും അല്ല അതിനാൽ നിങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് അനുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് വ്യക്തമായിരിക്കണം എന്നിട്ട് രൂപപ്പെടുത്തിയാൽ ധാരാളം ഗ്രന്ഥസഞ്ചയം ലഭ്യമാകും ഈ ദിവസങ്ങളിൽ ഇത് നെറ്റിൽ ലഭ്യമാണ് നിങ്ങൾ വിഷയസംബന്ധിയായ സകല രചനകളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും പ്രസക്തമായ ഗ്രന്ഥസഞ്ചയം തിരിച്ചറിയുകയും അത് പഠിക്കുകയും വേണം എന്നിട്ട് നിങ്ങൾ പ്രശ്നം വിശകലനം ചെയ്യണം ഇതിനർത്ഥം വിശദമായ വിശകലനത്തിലൂടെ തെറ്റായി നിർവചിക്കപ്പെട്ട ഒരു പ്രശ്നത്തെ നന്നായി നിർവചിക്കപ്പെട്ട പ്രശ്നമായി പരിവർത്തനം ചെയ്യുന്ന അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങൾ പോകണം എന്നിട്ട് നിങ്ങൾ വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരണം അതിനർത്ഥം ഈ ഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന അനുമാനങ്ങൾ പ്രശ്നം രൂപപ്പെടുത്തുന്ന രീതി എന്നിവ കണക്കിലെടുത്ത് നിങ്ങൾ ശരിക്കും പരിസമാപ്തിയിൽ എത്തുന്നുവെന്നാണ് വിഷയസംബന്ധിയായ സകല രചനകളെക്കുറിച്ച് ഗവേഷണം രൂപീകരണം വിശകലനം എന്നിവയിലൂടെ ഇവയെല്ലാം നിങ്ങൾ എല്ലായ്പ്പോഴും ഗണിതശാസ്ത്രം പ്രകൃതി ശാസ്ത്രം എഞ്ചിനീയറിംഗ് ശാസ്ത്രം എന്നിവയുടെ ആദ്യ തത്ത്വങ്ങൾ ഉപയോഗിക്കണം അതിനാൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിൽ പ്രശ്ന പ്രസ്താവന നിർമാണം പ്രശ്ന രൂപീകരണം സംഗ്രഹം വിവരവും വിവരശേഖരണവും മോഡൽ വിവർത്തനം മൂല്യനിർണ്ണയം പരീക്ഷണാത്മക രൂപകൽപ്പന പരീക്ഷണം ഫലങ്ങളുടെ വ്യാഖ്യാനം നടപ്പാക്കൽ ഡോക്യുമെന്റേഷൻ ഫീഡ്ബാക്ക് മെച്ചപ്പെടുത്തൽ ഇവ ഉൾപ്പെടുന്നു എല്ലാ പ്രശ്നങ്ങളിലും ഇവയെല്ലാം ചെയ്യാൻ നിങ്ങൾ വിദ്യാർത്ഥിയെ പരിശീലിപ്പിക്കുന്നുവെന്ന് ഇതിനർത്ഥമില്ല എന്നാൽ പ്രോഗ്രാമിൽ വിവിധ കോഴ്സുകളിലൂടെ ഒരു വിദ്യാർത്ഥി ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഈ പ്രവർത്തനങ്ങളെല്ലാം ഏതെങ്കിലും ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ അനുഭവിക്കണം അതിനാൽ നിങ്ങൾക്ക് 4 വർഷവും 30 35 കോഴ്സുകളും ഉണ്ട് നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ പ്രോജക്റ്റുകൾ ഉണ്ടായിരിക്കാം അതിലൂടെ ഈ വശങ്ങളെല്ലാം അനുഭവിക്കണം ഈ മാനദണ്ഡവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി പ്രകടനം വിലയിരുത്താൻ പ്രോഗ്രാമിന് കഴിയണം നിങ്ങൾ അവിടെ പ്രസ്താവിച്ച അഭിപ്രായം അല്ലെങ്കിൽ സഹജാവബോധം അടിസ്ഥാനമാക്കി അല്ല ഗണിതവും എഞ്ചിനീയറിംഗ് സയൻസസിന്റെയും പ്രാഥമിക തത്ത്വങ്ങൾ ഉപയോഗിച്ച് വേണം നിലനില്ക്കുന്ന നിഗമനത്തിൽ എത്താൻ ഭൂരിഭാഗം പ്രോഗ്രാമുകളിലും ഈ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഉപസെറ്റിനെ പോലും അഭിസംബോധന ചെയ്യുന്ന കോഴ്സുകൾ ഇല്ല അതിനാൽ നിലവിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നതോ കൂടുതൽ നടത്തുന്നതോ ആയ രീതിയിൽ എന്ത് സംഭവിക്കും വിശേഷാൽ പ്രോഗ്രാമുകളൊന്നും ഈ പരിഗണനകളൊന്നും അഭിസംബോധന ചെയ്യുന്നില്ല അതിനാൽ എല്ലാ സ്ഥലങ്ങളിലും പാഠ്യപദ്ധതിയും അതിന്റെ നടപ്പാക്കലും കൂടുതൽ പരിഷ്കരിക്കുകയും പിഒ2 അഭിസംബോധന ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം കൂടാതെ ഇവയെല്ലാം ചെറുതും വലുതുമായ പ്രോജക്റ്റുകളിൽ ശരിയായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയൂ മിനി പ്രോജക്ടും പ്രധാന പ്രോജക്ടും മാത്രം പറഞ്ഞാൽ ഫലമുണ്ടാകില്ല അവർ അത് ശരിയായി ആസൂത്രണം ചെയ്യണം കൂടാതെ ഈ രീതികളിലൂടെ വിദ്യാർത്ഥികളെ എടുക്കുകയും വിലയിരുത്തുകയും വേണം ചില കോഴ്സുകളിലെ ഗ്രൂപ്പ് അസൈൻമെന്റുകളിലൂടെയും ഈ പിഒയെ അഭിസംബോധന ചെയ്യാൻ കഴിയും എന്നാൽ ഇതിന് ഇൻസ്ട്രക്ടറുടെ ഭാഗത്തുനിന്ന് കാര്യമായ ആസൂത്രണവും ഗ്രൂപ്പിലെ ഓരോ അംഗത്തിന്റെയും പ്രകടനം വിലയിരുത്തുന്നതിന് ഉചിതമായ തിരുത്തലുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് ഒരു ഗ്രൂപ്പ് അസൈൻമെന്റ് ഒരു കാലയളവിനുള്ളിൽ 2 മാസ കാലയളവിൽ നീട്ടിയിട്ടുണ്ടെന്ന് പറയാം അർത്ഥത്തിൽ 2 മാസം എന്നത് മുഴുവൻ സമയ പ്രവർത്തനമല്ല പക്ഷേ അവ 2 മാസ കാലയളവിൽ ചെയ്യുന്നു പക്ഷേ ഒരു ഗ്രൂപ്പായി സംവദിക്കുന്നു അത്തരം അസൈൻമെന്റുകൾ രൂപകൽപ്പന ചെയ്യുന്നത് സാധ്യമാണ് ഇവിടെ പിഒ2 ന്റെ ചില പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ പ്രധാനമായും ഉൾപ്പെടുന്ന സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നം രൂപപ്പെടുത്താൻ സഹായിക്കുന്ന പരിഹാരങ്ങൾ തേടുന്ന സന്ദർഭത്തെക്കുറിച്ച് ഉചിതമായ അനുമാനങ്ങൾ നടത്തുക എല്ലാ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും പഠിക്കേണ്ട ഒരു കാര്യമാണിത് മോശമായി നിർവചിക്കപ്പെട്ട ഒരു പ്രശ്നത്തിൽ നിന്ന് നന്നായി നിർവചിക്കപ്പെട്ട പ്രശ്നത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ധാരാളം അനുമാനങ്ങൾ നടത്തേണ്ടതുണ്ട് ഈ അനുമാനങ്ങൾ ന്യായീകരിക്കാവുന്നതായിരിക്കണം നിങ്ങൾ അത് വ്യക്തമായി പറയുകയുകയും എഴുതുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നിസ്സാരമായി കാണാനാവില്ല അതിനാൽ ഇത് വളരെ രസകരവും പ്രധാനപ്പെട്ടതുമായ ഒരു പ്രവർത്തനമാണ് കുറഞ്ഞത് 2 അല്ലെങ്കിൽ 3 കോഴ്സുകളിലെങ്കിലും ഫാക്കൽറ്റി ഈ പ്രവർത്തനം ഉൾപ്പെടുത്തണം അനുബന്ധ സാഹിത്യങ്ങളുടെ സർവേ അടിസ്ഥാനമാക്കി സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നം രൂപപ്പെടുത്തുന്നതിലെ അനുമാനങ്ങളെ ന്യായീകരിക്കുക എന്നാൽ ഇതിന് വളരെയധികം ജോലികൾ ആവശ്യമാണ് അനുമാനങ്ങളെ തിരിച്ചറിയുന്നതിനും അവയെ ന്യായീകരിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിരവധി കേസ് പഠനങ്ങൾ വളരെ വിശദമായി തയ്യാറാക്കേണ്ടതുണ്ട് കൂടുതൽ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുടെ അന്തിമ ഉപയോക്താക്കളുടെ ആവശ്യകതകൾ മനസിലാക്കുക നിങ്ങൾക്ക് നൽകാവുന്ന പ്രവർത്തനം ഒരു പ്രത്യേക പ്രദേശത്ത് നിങ്ങൾ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് എന്ന് വിളിക്കുന്ന ഒരു രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറയട്ടെ അവിടെ നിങ്ങൾ എടുക്കേണ്ട വാഹനങ്ങളുടെ എണ്ണം വാഹനങ്ങളുടെ തരം ആളുകൾ ഒരിടത്തു നിന്ന് നീങ്ങുന്ന രീതി എന്നിവ കണക്കിലെടുക്കുക മറ്റൊന്ന് ഒരാൾക്ക് പ്രശ്നം മുഴുവൻ പഠിക്കാനും അതിന്റെ ആവശ്യകതകൾ എന്താണെന്ന് എഴുതാനും കഴിയും അത്തരം അസൈൻമെന്റുകൾ വിദ്യാർത്ഥികൾക്ക് നൽകാം ഒരു ഫോർമുലേറ്റ് ചെയ്ത പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു രീതി പര്യവേക്ഷണം ചെയ്ത് തിരഞ്ഞെടുക്കുക ഒരു പ്രശ്നം രൂപപ്പെടുത്തിയുകഴിഞ്ഞാൽ വിവിധ പരിഹാരങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ കഴിയും അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു രീതി തിരഞ്ഞെടുക്കാനും അതിനൊപ്പം പൂർണ്ണമായ ന്യായീകരണം നൽകാനും കഴിയും അതും രസകരമായ ഒരു അഭ്യാസമാണ് രൂപപ്പെടുത്തിയ എഞ്ചിനീയറിംഗ് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങൾ പ്രക്രിയകൾ എന്നിവ വ്യക്തമാക്കുക ഇനവിവരണപ്രക്രിയ തന്നെ മിക്ക എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും ആ അനുഭവം നൽകുന്നില്ല അത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സവിശേഷതകളോടെ ആരംഭിച്ച് അവയെ ന്യായീകരിക്കാതെ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല അതിനാൽ ഇവ സാധ്യമായ ചില പ്രവർത്തനങ്ങളാണ് പക്ഷേ ഈ പ്രവർത്തനങ്ങൾ കേവലം പാഠപുസ്തക തരം അല്ല ഞങ്ങളുടെ ഇന്നത്തെ പരീക്ഷാ രീതിയെന്ന് നിങ്ങൾ വിളിക്കുന്നതിന്റെ പരിധിയിൽ വരില്ല പിഒ3 ലേക്ക് വരുന്നു ശീർഷകം പരിഹാരങ്ങളുടെ രൂപകൽപ്പനയും വികസനവുമാണ് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ ഡിസൈൻ പരിഹാരങ്ങളും സിസ്റ്റം ഘടകങ്ങൾ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ആവശ്യങ്ങൾ നിറവേറ്റുന്ന പ്രക്രിയകൾക്കുമുള്ള ഉചിതമായ പരിഗണനയോടെ പൊതുജനാരോഗ്യത്തിനും സുരക്ഷയ്ക്കും സാംസ്കാരികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പരിഗണനയും പ്രസ്താവനയിൽ പറയുന്നു ഇത് ചെയ്യാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രത്യേക പിഒയെ മനസിലാക്കാൻ ശ്രമിക്കുക എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത് പ്രോജക്റ്റുകളിലൂടെയും അസൈൻമെന്റുകളിലൂടെയും മാത്രമേ അനുഭവിക്കാൻ കഴിയൂ ടെസ്റ്റുകളിലൂടെയും പരീക്ഷകളിലൂടെയും വളരെ ചെറിയ പ്രവർത്തനമല്ലാതെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എഞ്ചിനീയറിംഗ് പ്രശ്നത്തിന് പരിഹാരം രൂപകൽപ്പന ചെയ്യുന്നത് സമയമെടുക്കുന്ന പ്രവർത്തനമാണ് ഉദാഹരണത്തിന് അവസാന സെമസ്റ്റർ പരീക്ഷയിൽ പോലും നിങ്ങൾ ഏതെങ്കിലും പരീക്ഷാ പേപ്പർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണയായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ചോദ്യത്തിനും അരമണിക്കൂറിൽ കൂടുതൽ എടുക്കരുത് അതായത് ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് അരമണിക്കൂറിനുള്ളിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയണം അര മണിക്കൂർ ദൈർഘ്യമുള്ള പ്രവർത്തനത്തിന് അനുയോജ്യമായി ഈ മാനദണ്ഡങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയില്ല അതിനാൽ ഇതുപോലുള്ള ഡിസൈനിംഗ് സൊല്യൂഷനുകൾ ഉൾപ്പെടുത്താൻ കഴിയില്ല പരിമിതമായ സമയത്തിൽ എഴുതുന്ന പരീക്ഷകളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല തിരിച്ചറിഞ്ഞ ചില കോഴ്സുകളിലെ ചെറിയ അസൈൻമെന്റുകളിലൂടെ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയും അതിനാൽ ഒരു മെക്കാനിക്കൽ ഘടകം രൂപകൽപ്പന ചെയ്യണമെന്നും അല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങൾ നിർവ്വഹിക്കാവുന്ന ഒരു സർക്യൂട്ട് രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾക്ക് പറയാം ആ ഭാഗം ചെയ്യാൻ കഴിയും ചുരുങ്ങിയത് ഘടകങ്ങളെങ്കിലും സമയത്തിനുള്ളിൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഘടകങ്ങളുടെയും പ്രക്രിയകളുടെയും രൂപകൽപ്പന മാനദണ്ഡങ്ങളും സവിശേഷതകളും ഒരു നിശ്ചിത പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളിൽ നിന്ന് ആവിഷ്കരിക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെ ഒരു പ്രവർത്തനം ഡിസൈൻ മാനദണ്ഡങ്ങളും സവിശേഷതകളും ആണ് ടാക്സോണമിയിൽ വരുമ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ മാനദണ്ഡങ്ങളും സവിശേഷതകളും ഒരു പ്രധാന പങ്ക് വഹിക്കണം പക്ഷേ നിർഭാഗ്യവശാൽ ഇതിലേക്ക് കാര്യമായ ശ്രദ്ധ ലഭിക്കുന്നില്ല പൊതുജനാരോഗ്യവും സുരക്ഷയും സാംസ്കാരികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പരിഗണനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഈ മാനദണ്ഡങ്ങളും സവിശേഷതകളും വികസിപ്പിക്കണം പൊതുആരോഗ്യം സുരക്ഷ പാരിസ്ഥിതിക പരിഗണന എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾ അത് എങ്ങനെ ചെയ്യും നിങ്ങൾ പോയി പൊതുജനാരോഗ്യം സുരക്ഷ എന്നിവ പഠിക്കാൻ പോകുന്നില്ല കാരണം ഇത് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യമായി മാറും എന്നാൽ സാധാരണയായി നിങ്ങൾ പ്രസക്തമായ മാനദണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നതിലൂടെ അവ പരിഹരിക്കപ്പെടും ഈ മാനദണ്ഡങ്ങൾ പ്രൊഫഷണൽ സൊസൈറ്റികളിൽ നിന്ന് വന്നേക്കാം കുറച്ച് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പ്രസക്തമായ മാനദണ്ഡങ്ങൾ പരിഗണിക്കുന്നു ഭൂരിഭാഗം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഒരു സാധാരണ രീതിയല്ല അത് മാനദണ്ഡങ്ങളുമായി പ്രവർത്തിക്കുന്നു ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി നിങ്ങൾ ഒരു ഘടകമോ ഉപസിസ്റ്റമോ രൂപകൽപ്പന ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഇത് യഥാർത്ഥ ഘടക രൂപകൽപ്പന ഉപയോഗിച്ച മെറ്റീരിയലുകൾ അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കേണ്ട രീതി എന്നിവയിൽ പ്രതിഫലിക്കും നിങ്ങൾ ഒരു നിശ്ചിത മാനദണ്ഡം പിന്തുടരുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളുണ്ട് സാംസ്കാരികവും സാമൂഹികവുമായ പരിഗണനകൾക്ക് എഞ്ചിനീയറിംഗ് ഇതര മേഖലകളിൽ നിന്നുള്ള ഇൻപുട്ടുകൾ ആവശ്യമാണ് കൂടാതെ നോൺ ഫങ്ഷണൽ സവിശേഷതകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സിസ്റ്റത്തിനോ ഫംഗ്ഷണൽ സവിശേഷതകളുണ്ട് കൂടാതെ നോൺ ഫങ്ഷണൽ സവിശേഷതകളും ഉണ്ട് നോൺ ഫങ്ഷണൽ എന്നതിനർത്ഥം നൽകിയ സ്ഥലത്തേക്കാളും നൽകിയ വോളിയത്തേക്കാളും കൂടുതൽ സ്ഥലം അത് കൈവശപ്പെടുത്തരുത് അതിന്റെ ഭാരം അതിനേക്കാൾ കൂടുതലാകരുത് മാത്രമല്ല അത് ചില നിറങ്ങൾ ഉപയോഗിക്കരുത് നോൺ ഫങ്ഷണൽ സവിശേഷതകളുടെ മുഴുവൻ കൂട്ടവും അവയെല്ലാം സാംസ്കാരികവും സാമൂഹികവുമായ ധാരാളം പരിഗണനകളിൽ നിന്ന് വരുന്നു എന്ന് പറയട്ടെ ഏതാണ് പിഒ3 പ്രവർത്തനങ്ങൾ ഉൽപ്പന്നങ്ങളുടെയും പ്രക്രിയകളുടെയും നോൺ ഫങ്ഷണൽ ആവശ്യകതകൾ നിർണ്ണയിക്കുന്നതിൽ പൊതുജനാരോഗ്യത്തിൻറെയും സുരക്ഷയുടെയും പങ്ക് സാംസ്കാരിക സാമൂഹിക പാരിസ്ഥിതിക പരിഗണനകൾ എന്നിവ മനസ്സിലാക്കുക രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ട ഉൽപ്പന്നത്തിനോ പ്രക്രിയയ്ക്കോ ബാധകമായ മാനദണ്ഡങ്ങൾ തിരിച്ചറിയുക സവിശേഷതകൾ അനുസരിച്ച് ഘടകങ്ങളും ഉപ സിസ്റ്റങ്ങളും രൂപകൽപ്പന ചെയ്യുക അതിനാൽ നിങ്ങൾ സവിശേഷതകളും രൂപകൽപ്പനയും ഉപയോഗിച്ച് ആരംഭിക്കുക രൂപകൽപ്പന ചെയ്ത ഉൽപ്പന്നത്തിന്റെയും പ്രക്രിയയുടെയും പ്രകടനം പരിശോധിക്കുന്നതിന് പരിശോധന പ്രക്രിയ വ്യക്തമാക്കുക അത് ഒരു പ്രത്യേക മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്നതാണ് ഉൽപ്പന്നം ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്ന ഒരു ലാബ് പരീക്ഷണം എനിക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയുമോ ഉൽപ്പന്നങ്ങൾ ഘടകങ്ങൾ പ്രക്രിയകൾ എന്നിവയുടെ രൂപകൽപ്പന രേഖപ്പെടുത്തുക ഡോക്യുമെന്റേഷൻ ഒരു പ്രധാന പഠന ഉപകരണമാണ് ആകാം ഇപ്പോൾ നാലാമത്തേത് സങ്കീർണ്ണമായ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക വീണ്ടും സാധുവായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ പരീക്ഷണങ്ങളുടെ രൂപകൽപ്പന വിശകലനം ഡാറ്റയുടെ വ്യാഖ്യാനം വിവരങ്ങളുടെ സമന്വയം എന്നിവ ഉൾപ്പെടെയുള്ള ഗവേഷണ അധിഷ്ഠിത അറിവും ഗവേഷണ രീതികളും ഉപയോഗിക്കുക ഇതിൽ എന്താണ് ഉൾപ്പെടുന്നത് സാധുവായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ഗവേഷണ അധിഷ്ഠിത അറിവിന്റെ ഉപയോഗം അത് പ്രസ്താവനയുടെ ഒരു ഭാഗമാണ് മിക്ക കോർ കോഴ്സുകളും സാധാരണയായി അത്തരം പഠന അനുഭവങ്ങൾ നൽകുന്നില്ല ഇതിന് യുജി വിദ്യാർത്ഥികൾക്ക് മനസിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം ഗവേഷണ പ്രബന്ധങ്ങളുടെ ശേഖരം ആവശ്യമാണ് തുടർന്ന് വിദ്യാർത്ഥികളോട് ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അതിന് ധാരാളം തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ബന്ധപ്പെട്ട വിജ്ഞാനശാഖക്ക് പ്രസക്തമായ ഗവേഷണ രീതികൾ മനസിലാക്കുക അതിനാൽ ഓരോ ശാഖയ്ക്കും അതിന്റേതായ ഗവേഷണ രീതികളുണ്ട് അവ ഉൾപ്പെടുത്താൻ കഴിയുമോ ഇത് ചെയ്യാവുന്നതും ചില കോഴ്സുകളിൽ ഇത് ഉൾപ്പെടുത്താവുന്നതുമാണ് ഇപ്പോൾ അത്തരം അഭ്യാസങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നടപ്പാക്കാനും ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ചും ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും ബിരുദതലത്തിൽ ഉദാഹരണത്തിന് പരീക്ഷണങ്ങളുടെ രൂപകൽപ്പനയുടെ ഗവേഷണ രീതി ചില ലബോറട്ടറികളിലെ ഓപ്പൺ എൻഡ് പരീക്ഷണങ്ങളിലൂടെ അനുഭവിച്ചറിയാം എന്ന് നമുക്ക് പറയാം ഡാറ്റയുടെ വിശകലനത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും ഗവേഷണ രീതിയും വിവരങ്ങളുടെ സമന്വയവും ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട കാര്യമായ ഡാറ്റ ശേഖരണം ആവശ്യപ്പെടുകയും വിവരങ്ങളുടെ സമന്വയത്തിലേക്ക് നയിച്ചേക്കാവുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു പാഠപുസ്തകങ്ങളിൽ സാധാരണയായി കാണാത്ത അനുബന്ധ വിവരങ്ങൾ പിന്തുണയ്ക്കുന്ന ധാരാളം കേസ് പഠനങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിൽ ഇവയിൽ പലതും നിങ്ങൾക്ക് വീണ്ടും കാണാൻ കഴിയും ഡാറ്റാബേസുകൾ മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കെമിക്കൽ പ്രോസസ് ഒപ്റ്റിമൈസേഷൻ നാനോ ടെക്നോളജി ഉപകരണങ്ങൾ സെൻസർ ഡിസൈൻ തുടങ്ങിയ വിഷയങ്ങളിൽ അത്തരം സന്ദർഭങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ഇവ ചില ഉദാഹരണങ്ങളാണ് എന്നാൽ പുതുമ വരുത്തുന്ന ഏതൊരു അധ്യാപകനും ഈ ഫലങ്ങൾ നിറവേറ്റുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ കഴിയും പിഒ4 ന് കീഴിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ ബാധകമായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പരീക്ഷണങ്ങൾ സർവേകൾ വിവരങ്ങൾ ശേഖരിക്കുക ആസൂത്രണം ചെയ്യുക സാധുവായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ആവശ്യമായ കണക്കുകൂട്ടലുകളും ഡാറ്റ കുറയ്ക്കലും നടത്തുക ഫലങ്ങൾ പ്രൊഫഷണൽ രീതിയിൽ അവതരിപ്പിക്കുക അതിനാൽ ഇവ ചില നിർദ്ദിഷ്ട പ്രവർത്തനങ്ങളാണ് ഒരു തരത്തിലും ഇത് സമഗ്രമല്ല അതിനാൽ ഈ പ്രത്യേക പിഒയെ അഭിസംബോധന ചെയ്യാൻ ഫാക്കൽറ്റി അത്തരം പ്രവർത്തനങ്ങൾ പര്യവേക്ഷണം ചെയ്യണം അവസാനമായി PO5 ആധുനിക ഉപകരണ ഉപയോഗം എന്താണ് പറയുന്നത് പരിമിതികളെക്കുറിച്ച് മനസിലാക്കിക്കൊണ്ട് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളിലേക്ക് പ്രവചനവും മോഡലിംഗും ഉൾപ്പെടെയുള്ള ഉചിതമായ സാങ്കേതിക വിദ്യകൾ വിഭവങ്ങൾ മോഡൽ എഞ്ചിനീയറിംഗ് ഐടി ഉപകരണങ്ങൾ എന്നിവ സൃഷ്ടിക്കുക തിരഞ്ഞെടുക്കുക പ്രയോഗിക്കുക ഇത് സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൃഷ്ടിക്കൽ തിരഞ്ഞെടുക്കൽ പ്രയോഗിക്കൽ എന്നിവയാണ് കീവേഡുകൾ ഇവ മൂന്നും ആധുനിക എഞ്ചിനീയറിംഗ് ഐടി ഉപകരണങ്ങളിൽ ഉൾപ്പെടുന്നു അതിനർത്ഥം അവ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഐടി ഉപകരണങ്ങൾ പോലുള്ള ആധുനിക എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളാകാം ഈ ദിവസത്തെ ചില ഐടി ഉപകരണങ്ങൾ പല എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾക്കും പരിചിതമാണ് അതിനാൽ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നത് മൾട്ടിഡിസിപ്ലിനറി ടീമുകൾക്ക് പ്രോജക്റ്റുകളിലൂടെ മാത്രമേ ശ്രമിക്കൂ ഒരു നിർദ്ദിഷ്ട ആപ്ലിക്കേഷനായുള്ള വ്യത്യസ്ത ഉപകരണങ്ങളെ താരതമ്യപ്പെടുത്തുന്ന പേപ്പർ ലെവൽ അഭ്യാസം മാത്രമേ തിരഞ്ഞെടുക്കാനാകൂ കാരണം താരതമ്യത്തിനുള്ള എല്ലാ ഉപകരണങ്ങളിലേക്കും ഒരാൾക്ക് ആക്സസ് ഇല്ലായിരിക്കാം കാണുക സ്ലൈഡ് സമയം 3805 പല സ്ഥാപനങ്ങളും ഇതിനകം അവരുടെ ലാബുകളിലും ഉപകരണങ്ങളിലും ഐടി സംയോജിപ്പിച്ചു എന്നാൽ ആധുനിക അളക്കലിനും പരീക്ഷണത്തിനും വേണ്ട ഉപകരണങ്ങൾ വളരെ ചിലവേറിയതാണ് വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്കേ ബിരുദ തലത്തിൽ അവ താങ്ങാൻ കഴിയൂ എന്നാൽ വെർച്വൽ ലബോറട്ടറികൾക്ക് ഇതിനൊരു മാർഗ്ഗം നൽകാൻ കഴിയും ഇപ്പോൾ സങ്കീർണ്ണതയിലേക്ക് വരുമ്പോൾ സങ്കീർണ്ണത വലിയ അളവിലുള്ള വേരിയബിളുകൾ വ്യത്യസ്ത സമയ പരിമിതികളുള്ള പ്രതിഭാസങ്ങൾ ശബ്ദകോലാഹലത്തിന്റെ സാന്നിധ്യം അനേകം സ്വതന്ത്ര തീരുമാനമെടുക്കൽ അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പുകളുള്ള സിസ്റ്റങ്ങൾ എന്നിവയാണ് സങ്കീർണ്ണമായ ഒരു പ്രശ്നത്തിന്റെ സ്വഭാവം ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രസ്താവിക്കുന്നു പിന്നീട് നമ്മൾക്ക് അതിലേക്ക് മടങ്ങാം സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ പെരുമാറ്റം പ്രവചിക്കുന്നത് വിപുലമായ സിമുലേഷൻ ഉപയോഗിക്കാതെ ലളിതമായ സന്ദർഭങ്ങളിൽ പോലും ചെയ്യാൻ കഴിയില്ല അതിനാൽ ഈ പ്രത്യേക പിഒയെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന ഉപകരണമായി ഇപ്പോൾ സിമുലേഷൻ മാറുന്നു മോഡലിംഗ് എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ ഭാഗമാണെങ്കിലും ക്ലാസ്റൂം തലത്തിലും ലബോറട്ടറികളിലും സിമുലേഷൻ വ്യാപകമായി ഉപയോഗിക്കാം അതിനാൽ ഇവ ചില പ്രവർത്തനങ്ങളാണ് ഒരു തരം എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾക്കുള്ള ഒരു സിമുലേഷൻ ഉപകരണത്തിന്റെ ആവശ്യകതകൾ നിർണ്ണയിക്കുക സിമുലേഷനായി ഉപകരണങ്ങൾ സൃഷ്ടിക്കുക ഒരു തരം എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പ്രോജക്റ്റ് വഴി പരിഹരിക്കുന്നതാണ് നല്ലത് ഏറ്റവും ചെലവു കുറഞ്ഞ ഉപകരണം തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐടി ഉപകരണത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കുക വകുപ്പ് ലഭ്യമാക്കിയ എഞ്ചിനീയറിംഗ് ഐടി ഉപകരണങ്ങൾ ഉപയോഗിക്കുക അതിനാൽ ഇവ ചില പിഒ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അത് ഈ യൂണിറ്റിന്റെ അവസാനമാണ് സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ എല്ലാ സ്വഭാവസവിശേഷതകളും ഉള്ള പരിചിതമായ സന്ദർഭത്തിൽ സങ്കീർണ്ണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങളുടെ രണ്ട് ഉദാഹരണങ്ങൾ അസൈൻമെന്റുകളിൽ ഉൾപ്പെടുന്നു തുടക്കത്തിൽ നിങ്ങൾ 250 മുതൽ 500 വരെ വാക്കുകളിൽ എഴുതുക പിന്നീട് അവ കൂടുതൽ വിപുലീകരിക്കാൻ കഴിയും നിങ്ങൾ പഠിപ്പിച്ചതും പഠിച്ചതുമായ കോഴ്സുകളിൽ നിങ്ങളുടെ കാഴ്ചയിൽ നിന്ന് പിഒ1 പിഒ2 പിഒ3 പിഒ4 പിഒ5 എന്നിവ അഭിസംബോധന ചെയ്യുന്ന രണ്ട് ഉദാഹരണ പ്രവർത്തനങ്ങൾ നൽകുക അടുത്ത യൂണിറ്റ് ഒരു ബിരുദ എഞ്ചിനീയർക്ക് പ്രസക്തമായ പിഒ 6 മുതൽ പിഒ 12 വരെയുള്ള ശേഷിക്കുന്ന പിഒകളെ അഭിസംബോധന ചെയ്യും വളരെയധികം നന്ദി